ഈ ട്യൂട്ടോറിയലിലും അടുത്തതിലും നമ്മൾ അടിസ്ഥാന ഇലക്ട്രോസ്റ്റാറ്റിക്സിലും വെക്റ്റർ കാൽക്കുലസിലും ഉള്ള അസൈൻമെന്റ് നമ്പർ 2 പരിഹരിക്കും ഈ അസൈൻമെന്റിന്റെ പ്രശ്നം നമ്പർ ഒന്നിൽ തന്നിരിക്കുന്ന ഫീൽഡിനായി പറയുന്നു ഇത് x y എന്നിവയുടെ പ്രവർത്തനമാണ് 2 x i പ്ലസ് 3 y j ന് തുല്യമാണ് ഡോട്ട് പ്രോഡക്റ്റ് F dot ds ds ആരം R ഉള്ള സിലിണ്ടറിലെ ഒരു അനന്തമായ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന അതിനാൽ F ഡോട്ട് ds പ്രോഡക്റ്റ് കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ആംഗിൾ ഫൈയിലെ ആരം R ന്റെ സിലിണ്ടറിലെ അനന്തമായ പ്രദേശമാണിത് നമ്മൾ സിലിണ്ടർ കോർഡിനേറ്റുകളാണ് ഉപയോഗിക്കുന്നത് അതിനാൽ നമ്മൾ കാണാൻ ശ്രമിക്കുന്ന സിലിണ്ടറിന്റെ ഒരു ചിത്രം ഞാൻ നിർമ്മിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ഫീൽഡ് ഉണ്ട് കൂടാതെ എഫ് ഡോട്ട് ds ന്റെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു ഇവിടെ ഈ ചെറിയ പ്രദേശം R ൽ നിന്നും ആംഗിൾ ഫൈയിലാണ് Fxy2xi3yj അതിനാൽ സിലിണ്ടർ കോർഡിനേറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ പ്രദേശം യഥാർത്ഥത്തിൽ സിലിണ്ടർ കോർഡിനേറ്റുകളിലെ എസ് യൂണിറ്റ് വെക്ടറിന്റെ ദിശയിലേക്കാണ് പോകുന്നത് അതിന്റെ ഉയരം d z അല്ലെങ്കിൽ ഡെൽറ്റ z ആണ് ഈ ആംഗിൾ d phi ആണ് അതിനാൽ ഈ പ്രദേശത്തിന്റെ വ്യാപ്തി അതിനാൽ ഞാൻ ds മാഗ്നിറ്റ്യൂഡ് എഴുതുകയാണെങ്കിൽ ഈ ദൂരം R d phi ആയിരിക്കും വളഞ്ഞ പ്രതലത്തിന്റെ വക്ര ദൂരം ചുവപ്പ് നിറത്തിൽ കാണിക്കാം ഉയരം d z ആണ് അതിനാൽ മാഗ്നിറ്റ്യൂഡ് R d phi d z ആകും x ദിശയിൽ d ആയിരിക്കും അതിനാൽ ds ഏരിയ s ദിശയിൽ R d phi d z ആണ് അതിനാൽ ഞാൻ കണക്കാക്കുമ്പോൾ F ഡോട്ട് ds 2 x i ഡോട്ട് s R d phi d z പ്ലസ്s 3 y j ഡോട്ട് s യൂണിറ്റ് വെക്റ്റർ R d phi d z ആയിരിക്കും srdϕdz ഇപ്പോൾ ഉപരിതലത്തിലെ സിലിണ്ടർ കോർഡിനേറ്റുകളിൽ എനിക്കറിയാം x ആകാൻ പോകുന്നു R കൊസൈൻ phi i ഡോട്ട് s യൂണിറ്റ് വെക്റ്റർ phi എന്നത് കൊസൈൻ phi y എന്നത് R സൈൻ phi j j ഡോട്ട് എന്നത് സൈൻ phi ആണ് അതിനാൽ എഫ് ഡോട്ട് ഡി എസ് 2 ആർ കോസൈൻ സ്ക്വയർ ഫൈ പ്ലസ് 3 ആർ സൈൻ സ്ക്വയർ ഫൈ ആയിരിക്കും തുടർന്ന് നമുക്ക് പുറത്ത് നിന്ന് R d phi d z തുല്യമായിരിക്കും R സ്ക്വയർ 2 കോസൈൻ സ്ക്വയർ phi പ്ലസ് 3 സൈൻ സ്ക്വയർ phi d phi dz എന്ന ഐഡന്റിറ്റി ഉപയോഗിക്കുന്നതിലൂടെ എനിക്ക് കോസൈൻ സ്ക്വയർ phi പ്ലസ് സൈൻ സ്ക്വയർ എന്നും എഴുതാം എനിക്ക് ഇത് ഇങ്ങേനെയും R സ്ക്വയർ 2 പ്ലസ് സൈൻ സ്ക്വയർ phi d phi d z അതാണ് ഉത്തരം dS2Rcos2ϕ3Rsin2RdϕdzR22ϕ3ϕdϕdzR22ϕdϕdz ചോദ്യ നമ്പർ 2 ന് ഉത്തരം പ്രശ്നം 1 ലെ ഫ്ലക്സ് ഒരു സിലിണ്ടർ ഉപരിതലത്തിന്റെ നാലിലൊന്നിൽ പൈ തുല്യം പൈ ബൈ 4 മുതൽ phi തുല്യം 3 പൈ ബൈ 4 വരെ വ്യാപിക്കുന്നു അതിനാൽ നമ്മൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണ് വീണ്ടും ഈ സിലിണ്ടർ നിർമ്മിക്കാൻ അനുവദിക്കുക നമ്മൾ സിലിണ്ടറിന്റെ ദൈർഘ്യം 1 ആയി എടുക്കുന്നു ഈ നീളത്തിൽ 1 ന് മുകളിൽനമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു phi തുല്യം pi ബൈ 4 മുതൽ phi തുല്യം 3 pi ബൈ 4 വരെ അതിനാൽ പിൻവശത്തുള്ള ഈ സിലിണ്ടർ ഉപരിതലത്തിന് മുകളിലൂടെ ഇതുപോലുള്ള എവിടെയെങ്കിലും ഈ സിലിണ്ടർ ഉപരിതലത്തിലൂടെ കടന്നുപോകുന്ന ഫ്ലക്സ് കണക്കാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് ഉപരിതലത്തിൽ എഫ് ഡോട്ട് ഡിഎസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്നതാണ് ഇത് ഇന്റഗ്രൽ ഡി ഫൈയ്ക്ക് തുല്യമാകാൻ പോകുന്നത് pi ബൈ 4 മുതൽ 3 pi ബൈ 4 വരെ dz നീളം ഒന്നാണ് അതിനാൽ ഏത് നീളത്തിൽ നിന്നാണ് നമുക്ക് അനുവദിക്കുക 0 മുതൽ 1 വരെ പറയുക കാരണം z ആശ്രയത്വം ഇല്ല എന്നത് പ്രശ്നമല്ല അവ പ്രാരംഭവും അവസാനവുമായ പോയിന്റുകൾ R സ്ക്വയർ 2 പ്ലസ് സൈൻ സ്ക്വയർ phi ഉം ആണ് ഇപ്പോൾ z ആശ്രിതത്വം ഇല്ലാത്തതിനാൽ z ഇന്റഗ്രൽ എനിക്ക് 1 നൽകുന്നു dS43π4dϕ01dz R22sin2ϕ അതിനാൽ ഈ ഫ്ലക്സ് ഇന്റഗ്രൽ പൈയിൽ നിന്ന് d phi pi ബൈ 4 മുതൽ 3 pi ബൈ 4 വരെ R സ്ക്വയർ 2 പ്ലസ് സൈൻ സ്ക്വയർ phi തുല്യമാണ് 2 R സ്ക്വയർ ഗുണം 3 pi ബൈ 4 മൈനസ് pi ബൈ 4 അതായതു ആദ്യ ടേം പ്ലസ് ആർ സ്ക്വയർ ഇന്റഗ്രേഷൻ 1 മൈനസ് കോസൈൻ 2 phi ഓവർ pi ബൈ 4 മുതൽ 3 pi ബൈ 4 വരെ ഇത് 2 ആർ ന് തുല്യമാണ് ക്ഷമിക്കണം ഇത് R സ്ക്വയർ R സ്ക്വയർ ടൈംസ് പൈ ബൈ 2 പ്ലസ് ആർ സ്ക്വയർ ബൈ 2 ഉള്ളിൽ ഞാൻ ആദ്യ ടെർമിൽ നിന്ന് നേടാൻ പോകുന്നു pi ബൈ 2 മൈനസ് 1 ഓവർ 2 സൈൻ 2 phi പൈ ബൈ 4 ഉം 3 പൈ ബൈ 4 ഉം ഇന്റഗ്രൽ ചെയ്യുന്നത് വളരെ ലളിതമാണ് അവസാന ഉത്തരം 5 pi R സ്ക്വയർ ബൈ 4 പ്ലസ് R സ്ക്വയർ ബൈ 2 ആയി പുറത്തുവരും ഇന്റഗ്രൽ ചെയ്യുന്നത് വളരെ ലളിതമാണ് അതിനാൽ ഞാൻ അവ നിങ്ങൾക്കായി വിടുന്നു ϕR243π4dϕ2sin22R23π4 4R243π41 cos2ϕ2dϕ5πR24R22 ചോദ്യ നമ്പർ 3 സ്ഥലത്തിന്റെ ഒരു ഭാഗത്ത് വിതരണം ചെയ്യുന്ന ദ്രവ്യത്തിന്റെ സാന്ദ്രത ഇങ്ങനെയാണെങ്കിൽ ആണ് അതിനാൽ x y z എന്നിവയുടെ സാന്ദ്രത എഴുതട്ടെ എനിക്ക് ഇത് സാന്ദ്രത ആർ തീറ്റ എന്നും ഫൈയെ സി x സ്ക്വയർ മോഡുലസ് z എന്നും എഴുതാം അതിന്റെ അർത്ഥം താഴത്തെ തലം അല്ലെങ്കിൽ z നെഗറ്റീവ് മൂല്യം അല്ലെങ്കിൽ പോസിറ്റീവ് മൂല്യം ആണ് x ഇത് x സ്ക്വയറിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ സാന്ദ്രത എല്ലാം പോസിറ്റീവ് ആണ് ഇത് സി x സ്ക്വയർ മോഡ് z എന്നാണ് നൽകിയിരിക്കുന്നത് ഇവിടെ സി എന്നത് സ്ഥിരമാണ് ഗോളീയ സ്ഫെറിക്കൽ കോ ഓർഡിനേറ്റുകളിലെ അനന്തമായ സമാനതകളില്ലാത്ത വോളിയം മൂലകത്തിന്റെ മാസ്സ് ആണ് അത് നൽകിയിരിക്കുന്നു xyzρrθϕCx2|z| അതിനാൽ ഒരു ചെറിയ വോളിയം മൂലകത്തിന്റെ മാസ്സ് കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഞാൻ വീണ്ടും ഒരു ചിത്രം നിർമ്മിക്കട്ടെ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റുകളിലെ വോളിയം എലമെന്റ് തീറ്റയ്ക്കും ഡി തീറ്റയ്ക്കും ഇടയിലായിരിക്കുമെന്ന് നിങ്ങൾ ഓർക്കുന്നു ഇത് ഇതുപോലെ കാണപ്പെടും ഇവിടെ ഇത് ചെറിയ ഡി ആർ ആണ് നിങ്ങൾ ഡി തീറ്റയിലൂടെ നീങ്ങുന്നു നിങ്ങൾ xy അക്ഷത്തിൽ നീങ്ങുമ്പോൾ ആംഗിൾ d phi ആണ് അതിനാൽ വോളിയം മൂലകം നൽകിയിരിക്കുന്നത് dv എന്നത് r സ്ക്വയർ ഡി ആർ സൈൻ തീറ്റ ഡി തീറ്റ ഡി phi എന്നതിന് തുല്യമാണ് R തീറ്റയുടെയും phi യുടെയും സാന്ദ്രത C x സ്ക്വയർ മോഡ് z ആയി നൽകിയിരിക്കുന്നു ഇത് ഞാൻ ഗോളീയ ധ്രുവ കോ ഓർഡിനേറ്റുകളിൽ മാറ്റാൻ പോകുന്നു അതിനാൽ ഇത് ഇപ്പോഴും സി ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കോസൈൻ സ്ക്വയർ ഫൈ ആയി മാറുന്നു തുടർന്ന് z എന്നത് ആർ അല്ലാതെ മറ്റൊന്നുമല്ല ആർ വീണ്ടും പോസിറ്റീവ് സംഖ്യകൾ മാത്രമാണ് അതിനാൽ കോസൈൻ തീറ്റ പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും അതിനാൽ ഞാൻ കൂടുതൽ മോഡ് കോസൈൻ തീറ്റ ഇടും dVr2drsinθdθdϕ rθϕCx2zCr2ϕ r|cosθ| അതിനാൽ ഈ ചെറിയ മാസ്സ് rho ടൈംസ് dv യ്ക്ക് തുല്യമായിരിക്കും അത് ഇവിടെ സി ആർ ക്യൂബ് ചെയ്തിരിക്കുന്നു ഈ പദം ഇവിടെ ആർ ക്യൂബ് തവണയായി മാറുന്നു സൈൻ സ്ക്വയർ തീറ്റ കോസൈൻ സ്ക്വയർ phi മോഡ് കോസൈൻ തീറ്റ തുടർന്ന് നിങ്ങൾക്ക് ആർ സ്ക്വയർ d R സൈൻ തീറ്റ d തീറ്റ d phi ഒടുവിൽ എനിക്ക് സി ആർ റൈസ് ടു 5 സൈൻ ക്യൂബ് തീറ്റ മോഡ് കോസൈൻ തീറ്റ കോസൈൻ സ്ക്വയർ phi d R d തീറ്റ d phi ആയി എഴുതാൻ കഴിയും അതാണ് മാസ്സ് dmρdVCr3cosθr2drsin θdθdϕCr5 cosθϕdrdθ dϕ ചോദ്യo നമ്പർ 4 തുടർന്ന് സാന്ദ്രത വിതരണത്തോടുകൂടിയ ഉത്ഭവത്തെ കേന്ദ്രമാക്കി ആരം r ഗോളത്തിന്റെ മാസ്സ് ചോദിക്കുക C x സ്ക്വയർ മോഡ് z ആണ് അതിനാൽ ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നു ആരം r ന്റെ ഉത്ഭവസ്ഥാനത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഗോളമുണ്ടോ ഈ മാസ്സ് സാന്ദ്രത rho r തീറ്റ phi എന്നത് C x സ്ക്വയർ മോഡ് z ന് തുല്യമാണ് അത് നമ്മൾ ഇതിനകം സി r ക്യൂബ്ഡ് സൈൻ സ്ക്വയർ തീറ്റ കോസൈൻ എന്ന് എഴുതിയിട്ടുണ്ട് കോസൈൻ തീറ്റയുടെ സ്ക്വയർ ഫി മോഡുലസ് R കേന്ദ്രത്തിന്റെ ആരം വരുന്ന ഒരു ഗോളത്തിന്റെ ആകെ മാസ്സ് എത്രയാണ് ചെറിയ വോളിയം മൂലകത്തിന്റെ ചെറിയ മാസ്സ് നമ്മൾ ഇതിനകം കണക്കാക്കിയിട്ടുണ്ട് ഇത് മുൻ പേജിൽ എഴുതിയതുപോലെ നൽകിയിട്ടുണ്ട് ഞാൻ അത് ഇവിടെ നിന്ന് പകർത്താൻ പോകുന്നു സി ആർ റൈസ് ടു 5 സൈൻ ക്യൂബ് തീറ്റ മോഡുലസ് കോസൈൻ തീറ്റ കോസൈൻ സ്ക്വയർ ഫി ഡി ആർ ഡി തീറ്റ ഡി ഫൈ അതിനാൽ മൊത്തം മാസ്സ് ഇതിന്റെ അവിഭാജ്യ ഘടകമാണ് ഇപ്പോൾ ഞാൻ ഈ ഇന്റഗ്രൽ പ്രത്യേകം എഴുതട്ടെ അതിനാൽ മൊത്തം മാസ്സ് m ആയി നൽകാൻ പോകുന്നു സി എന്നത് ഒരു സ്ഥിരാങ്കമാണ് അത് ഇന്റഗ്രൽ dr r റൈസ് ടു phi 0 മുതൽ R വരെ ഇന്റഗ്രൽ ഡി തീറ്റ സിൻ ക്യൂബ് തീറ്റ മോഡുലസ് കോസൈൻ തീറ്റ 0 മുതൽ പൈ വരെ ഒരു ഇന്റഗ്രൽ 0 മുതൽ പൈ വരെ കോസൈൻ സ്ക്വയർ phi അതാണ് ഉത്തരം ഇപ്പോൾ എനിക്ക് ഈ 3 ഇന്റഗ്രൽ വെവ്വേറെ ചെയ്യാൻ കഴിയും dmCr5sin3cosθcos2ϕdrdθdϕ MC0Rdr r50dθθ|cosθ|02πϕdϕ അതിനാൽ 0 മുതൽ R വരെ dr r റൈസ് ടു phi എനിക്ക് നൽകുന്നു R റൈസ് ടു 6 ഓവർ 6 അതുപോലെ ഇന്റഗ്രൽ ഓവർ 5 കോസൈൻ സ്ക്വയർ phi ആണ് ഞാൻ ഇവിടെ d phi എഴുതാൻ മറന്നു d phi 0 മുതൽ 2 pi വരെ 1 പകുതി ഇന്റഗ്രൽ 0 മുതൽ 2 പൈ 1 മൈനസ് കോസൈൻ 2 ഫൈ d phi അത് എനിക്ക് പൈയല്ലാതെ മറ്റൊന്നും നൽകുന്നില്ല 0Rdr r5R66 02πϕdϕ1202π1 cos2ϕdϕπ അന്തിമ ഇന്റഗ്രൽ ഈ ഡി തീറ്റ ഇന്റഗ്രൽ അടുത്ത പേജിൽ ചെയ്യാം 0 മുതൽ പൈ സൈൻ ക്യൂബ് തീറ്റ മോഡുലസ് ഓഫ് കോസൈൻ തീറ്റ ഡി തീറ്റ ഇത് എളുപ്പമാക്കുന്നതിന് എനിക്ക് എഴുതാൻ കഴിയും 0 മുതൽ പൈ സൈൻ സ്ക്വയർ തീറ്റ മോഡുലസ് കോസൈൻ തീറ്റ കോസ് തീറ്റ ക്ഷമിക്കണം സൈൻ തീറ്റ ഡി തീറ്റ ഇത് 0 മുതൽ പൈ സൈൻ സ്ക്വയർ തീറ്റ മോഡുലസ് കോസൈൻ തീറ്റ ഡി കൊസൈൻ തീറ്റയുടെ മൈനസ് ചിഹ്നത്തിനൊപ്പം ഇനി നമുക്ക് x നെ കോസൈൻ തീറ്റ എന്ന് നിർവചിക്കാം അപ്പോൾ എനിക്ക് ഈ ഇന്റഗ്രൽ മൈനസ് 1 മുതൽ മൈനസ് 1 വരെ സൈൻ സ്ക്വയർ തീറ്റ തുല്യമാണ് 1 മൈനസ് x സ്ക്വയർമോഡ് x d x സായി മാറും 0cosθdθ0cosθsin θdθ 0θ|cos θ|d cos θ 1 11 X2XdX 111 X2XdX where Xcos θ നമുക്ക് ഇത് ഇന്റഗ്രൽ ചെയ്യാം അതിനാൽ എനിക്ക് മൈനസ് 1 മുതൽ 1 വരെ മൈനസ് x സ്ക്വയർ മോഡ് x d x സൈഡ് മോഡിലെ x x മൈനസ് x x നും ഇടയിലുള്ള മൈനസ് 1 നും 0 നും തുല്യമാണ് അതിനാൽ എനിക്ക് ഇത് ഈ ഇന്റഗ്രലിന് തുല്യമായി എഴുതാം അതിനാൽ മൈനസ് 1 മുതൽ 0 വരെ 1 മൈനസ് x സ്ക്വയർ തവണ x dx ന് പുറത്തുള്ള മൈനസ് ചിഹ്നം പ്ലസ് 0 മുതൽ 1 വരെ 1 മൈനസ് x സ്ക്വയർ x d x ഇവ നിർവഹിക്കാൻ വളരെ എളുപ്പമുള്ളതും അവ നിങ്ങൾക്ക് നൽകുന്ന അന്തിമ ഉത്തരവുമാണ് നിങ്ങൾ എല്ലാ ഇന്റഗ്രലും ചെയ്യുമ്പോൾ 1 പകുതിയായി വരും ഇത് കാണാനുള്ള മറ്റൊരു മാർഗ്ഗം മോഡ് x x ന് തുല്യമായതിനാൽ 0 തുല്യമാണ് എനിക്ക് ഇത് 2 തവണ 0 മുതൽ 1 വരെ 1 മൈനസ് x സ്ക്വയർ x ഡി x എന്ന് എഴുതാൻ കഴിയുമായിരുന്നു അത് എനിക്ക് 1 പകുതി തരും അതിനാൽ മൊത്തം മാസ്സ് അതിനാൽ ഞാൻ എല്ലാ പദങ്ങളും ശേഖരിക്കുകയാണെങ്കിൽ സി തവണ R റൈസ് ടു 6 ഓവർ 6 തവണ 1 പകുതി തവണ പൈ ഇത് പൈ സി ആർ റൈസ് ടു 6 ഓവർ 12 ന് തുല്യമാണ് അതാണ് നിങ്ങളുടെ ഉത്തരം